ഒരു ചാർജ് പ്രദേശത്തെ ത്വരിതപ്പെടുത്തുമ്പോഴോ അതിന്റെ ത്വരണത്തിന് അനുസൃതമായോ വേഗത c ഉപയോഗിച്ച് പ്രചരിപ്പിക്കുമ്പോൾ അതിന് ഒരു വൈദ്യുത മണ്ഡലമുണ്ടെന്ന് ഞങ്ങൾ ഇതുവരെ സ്ഥാപിച്ചു അതായത് ആ പ്രദേശത്തിന്റെ പ്രചാരണ ദിശയിലേക്ക് ലംബമായി വരുന്ന എല്ലാ ഘടകങ്ങളും ഒരു ടാൻജൻഷ്യൽ ഘടകമുണ്ട് ഈ പ്രഭാഷണത്തിൽ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഈ ഫീൽഡിന് യഥാർത്ഥത്തിൽ 1 ഓവർ r ആശ്രയത്വമുണ്ടെന്നും അത് പവർ വഹിക്കുന്നുവെന്നും അതായത് 1 ഓവർ r സ്ക്വയർ ആണ് അതിനർത്ഥം ഇത് തീർച്ചയായും വികിരണ മണ്ഡലമാണ് അതിനാൽ ഇപ്പോൾ ഒരു വരിയിൽ മാത്രം കേന്ദ്രീകരിച്ച് ഒരു വൃത്തിയുള്ള ചിത്രം നിർമ്മിക്കട്ടെ അതിനാൽ ഇത് എന്റെ ആന്തരിക വൃത്തം ഇത് എന്റെ ബാഹ്യ വൃത്തം ഇത് പിന്നീട് എന്റെ ചാർജ് ഇത് തുടക്കത്തിൽ ഉള്ള എന്റെ ചാർജ് ഇതാണ് തുടക്കത്തിൽ ഫീൽഡ് ലൈൻ ഇത് പിന്നീട് ഉള്ള ഫീൽഡ് ലൈനാണ് ഞാൻ അവയെ ബന്ധിപ്പിക്കും ഈ ചാർജ് ഈ വഴി നീങ്ങുന്നു ചാർജ് q ഇത് ഒരു റേഡിയൽ ഘടകം വികസിപ്പിച്ചെടുത്തു തീർച്ചയായും ടാൻജൻഷ്യൽ ഘടകവും റേഡിയൽ ഘടകവുമായ ഘടകമുണ്ട് ഇതാണ് E പ്ലസ് ഇതിനെ ടാൻജൻഷ്യൽ എന്നും മറ്റ് ശക്തികൾ E റേഡിയൽ എന്നും വിളിക്കുന്നു ഞാൻ ഫീൽഡ് നിരീക്ഷിക്കുന്ന ഈ കോണും ത്വരണത്തിന്റെ ദിശയും തീറ്റ ആയിരിക്കട്ടെ വീണ്ടും വരികൾ ബന്ധിപ്പിക്കാൻ അനുവദിക്കുക ഈ മറ്റ് വരി ഇതുപോലെയാണ് എനിക്ക് E ഈ ദൂരം c tau ഉണ്ട് എനിക്ക് ഈ ദൂരവും ആവശ്യമാണ് അതിനാൽ നമുക്ക് E ടാൻജൻഷ്യൽ അല്ലെങ്കിൽ E റേഡിയൽ E ടാൻജൻഷ്യൽ കൊണ്ട് ഹരിച്ചാൽ ആൽഫ യുടെ ടാൻജെന്റിന് തുല്യമാണ് ഇവിടെ ആൽഫ ഈ കോണാണ് E റേഡിയലിനെ E ടാൻജൻഷ്യൽ കൊണ്ട് ഹരിക്കുന്നു ആൽഫയുടെ ടാൻജെന്റ് ആൽഫയുടെ ഈ ടാൻജെന്റും സമാനമാണ് ഇവിടെയുള്ള ദൂരം c tau വിഭജിച്ചതുപോലെ അതിനടുത്തായി ഞാൻ ചുവപ്പ് നിറത്തിൽ കാണിക്കുന്നു അതേ ദൂരം ഇതാണ് നമുക്ക് d എന്ന് വിളിക്കാം c tau ഓവർ d ഇപ്പോൾ ഞാൻ d കണക്കാക്കും ഞാൻ ഈ ചിത്രം താഴേക്കു എടുത്ത് ഇത് d ഈ ആംഗിൾ തീറ്റ താഴത്തെ ദൂരത്തിൽ ഈ ദൂരം d എന്ന് കാണിക്കാം ഇതാണ് തീറ്റ എങ്കിൽ ഇതും തീറ്റയാണ് അതിനാൽ എനിക്ക് d ഓവർ v t സൈൻ തീറ്റയുടെ തുല്യമാണ് ഇത് സൂചിപ്പിക്കുന്നത് d v t സൈൻ തീറ്റയ്ക്ക് തുല്യമാണ് ഇത് ഇവിടെ മാറ്റിസ്ഥാപിക്കുന്നതിലൂടെ എനിക്ക് E റേഡിയൽ E ടാൻജൻഷ്യൽ കൊണ്ട് ഹരിച്ചാൽ c tau C v t സൈൻതീറ്റയ്ക്ക് തുല്യമാണ് ഇത് എനിക്ക് നൽകുന്നത് E ടാൻജൻഷ്യൽ E റേഡിയൽ v t C തീറ്റയെ c tau കൊണ്ട് ഹരിക്കുന്നു അതിനാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു വർക്കിംഗ് ഫോർമുല ലഭിച്ചു അത് ഉപയോഗിച്ച് ഞങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു ErEttan cτd dvtsin θ dvtsin ErEtcτvtsin EtErvtsin cτ സ്ലൈഡ് സമയം കാണുക 0401 അതിനാൽ നമുക്ക് c tau വിന് മുകളിലുള്ള E ടാൻജൻഷ്യൽ E സമം E r v t സൈൻ തീറ്റ ലഭിച്ചു എവിടെയാണ് ഞാൻ ഈ ചിത്രം ആന്തരിക വൃത്തം ബാഹ്യ വൃത്തം ഫീൽഡ് ലൈൻ ഇതുപോലെയാണ് ഇതാണ് E ടാൻജൻഷ്യൽ ഇതാണ് E റേഡിയൽ ഇപ്പോൾ v ഓവർ tau ആണ് ത്വരണം അതിനാൽ എനിക്ക് ഈ സൂത്രവാക്യം E r ത്വരണ സമയമായി എഴുതാൻ കഴിയും ഗാസ്സിന്റെ പ്രകാരം എനിക്ക് E r തവണ 4 pi r സ്ക്വയർ ഉണ്ട് r ഒന്നുമല്ല പക്ഷേ c tau സി സ്ക്വയർ t സ്ക്വയർ അതിനാൽ എനിക്ക് ഇത് മുറിച്ച് c സ്ക്വയർ t സ്ക്വയർ മൊത്തം ചാർജിന് തുല്യമായതിനാൽ എഴുതാം q ഹരിക്കുക എപ്സിലോൺ 0 കൊണ്ട് ഹരിക്കുക അതിനാൽ E റേഡിയൽ q ഓവർ 4 pi എപ്സിലോൺ 0 c സ്ക്വയർ t സ്ക്വയർ ഇത് ഉടനടി എനിക്ക് തരുന്നു E ടാൻജൻഷ്യൽ q a t സൈൻ തീറ്റയെ 4 പൈ എപ്സിലോൺ 0 c സ്ക്വയർ t സ്ക്വയർ സമയം കൊണ്ട് ഹരിക്കുന്നു വീണ്ടും ഞാൻ t യുടെ ഒരെണ്ണം റദ്ദാക്കാൻ പോകുന്നു c t വീണ്ടും r എന്ന് എഴുതാൻ പോകുന്നു കാരണം r ആണ് ദൂരം ഇലക്ട്രിക് ഫീൽഡിന്റെ ഈ ടാൻജൻഷ്യൽ ഘടകം നീങ്ങി എനിക്ക് ഇത് ഇങ്ങനെ എഴുതാം q a സൈൻ തീറ്റയെ 4 pi എപ്സിലോൺ 0 c സ്ക്വയർ r കൊണ്ട് ഹരിക്കുന്നു ശ്രദ്ധിക്കുക ഞങ്ങൾ അന്വേഷിക്കുന്നത് ഞങ്ങൾ നേടി ടാൻജൻഷ്യൽ ഇലക്ട്രിക് ഫീൽഡ് 1 ഓവർ r ന് ആനുപാതികമാണെന്ന് ഞങ്ങൾ കണ്ടെത്തി ഈ ടാൻജൻഷ്യൽ ഘടകം എത്ര ദൂരം നീങ്ങി ബാക്കി സ്ഥിരാങ്കങ്ങൾ EtErvtsin cτEratsin c Er×42r2c2t2q0 Erq420c2t2 Etqa sin θ420c2r അതിനാൽ ഈ കേസിൽ നമുക്ക് ലഭിച്ചത് E ടാൻജൻഷ്യൽ q a സൈൻ തീറ്റ ഓവർ 4 pi എപ്സിലോൺ 0 c ക്യൂബ് ആർ ന് തുല്യമാണ് ഈ ദിശയിൽ ത്വരണം നൽകിയ ഈ ചാർജിലേക്ക് ഞാൻ നോക്കുകയാണെങ്കിൽ അത് ഇവിടെ പൂജ്യമായ ടാൻജൻഷ്യൽ ഫീൽഡ് വികസിപ്പിക്കുന്നു സൈൻ തീറ്റ ഇവിടെ പൈ ബൈ 2 ൽ പരമാവധി ആണ് ഇത് ഇവിടെ വളരെ വലുതാണ് ത്വരണത്തിന്റെ ദിശയിൽ ഇവിടെ ചെറുത് ഇവിടെ ചെറുത് ഇവിടെ പോലും ചെറുത് തീറ്റ പൂജ്യമായി മാറുന്നു പൂജ്യത്തിന് തുല്യമാണ് മറുവശത്ത് മറ്റൊരു വഴി വളരെ വലുതും വീണ്ടും പൂജ്യത്തിലേക്കു കുറയുന്നു ഇപ്പോൾ പോയിന്റിംഗ് വെക്റ്റർ അല്ലെങ്കിൽ B ടാൻജൻഷ്യൽ എങ്ങനെ B ടാൻജൻഷ്യൽ ഞാൻ ഇതിനകം E ടാൻജൻഷ്യൽ ഓവർ c ആയി കണ്ടു അതിനാൽ ഇത് q ഒരു സൈൻ തീറ്റയായിരിക്കും ഇത് c സ്ക്വയറാണ് 4 pi എപ്സിലോൺ 0 c ക്യൂബ് r പോയിന്റിംഗ് വെക്റ്റർ s റേഡിയൽ ഔട്ട് ആകാൻ പോകുന്ന ഒരു പകുതി എപ്സിലോൺ 0 E സ്ക്വയർ തവണ c ക്ക് തുല്യമായിരിക്കും ഇത് 1 ഓവർ mu 0 E ക്രോസ് b ക്ക് തുല്യമാണ് അതിനാൽ ഇത് പകുതി എപ്സിലോൺ 0 ന്റെ c മടങ്ങ് E സ്ക്വയറിന്റെ തുല്യമാണ് ഇത് q സ്ക്വയർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റയെ 16 pi എപ്സിലോൺ 0 സ്ക്വയർ c റൈസ് ട്ടു 4 ആർ സ്ക്വയർ അതിനാൽ പോയിന്റിംഗ് വെക്റ്റർ ഇത് മാഗ്നിറ്റ്യൂഡ് ആണ് ദിശ എളുപ്പത്തിൽ ബാഹ്യമാണ് ഞാൻ ഒരു എപ്സിലോൺ 0 റദ്ദാക്കും c യുടെ ഒരു ക്യൂബ് റദ്ദാക്കും അതിനാൽ ഇത് തുല്യമാണ് ഈ പകുതിയും ഇപ്പോൾ ഇല്ല കാരണം ഞാൻ ശരാശരി എടുത്തിട്ടില്ല പകുതി വരികൾ നിങ്ങൾ ഓർക്കുന്നു ഹാർമോണിക് സ്വഭാവങ്ങൾ കാരണം ഈ പകുതി ഇല്ല q സ്ക്വയർ a സ്ക്വയർ ഓവർ 16 പൈ എപ്സിലോൺ 0 c ക്യൂബ്ഡ് സൈൻ സ്ക്വയേർഡ് തീറ്റ ക്ക് തുല്യമാണ് Etqa sin θ420c2r BtEtcqa sin θ420c3r S0E2c10EBq2a21620c3sin2r2 അതിനാൽ പവർ വികിരണങ്ങൾ 1 ഓവർ r സ്ക്വയറായി പോകുന്നതായി നിങ്ങൾ കാണുന്നു ഇത് വളരെ സംതൃപ്തമാണ് കാരണം ഒരു പോയിന്റ് സോഴ്സ് ൽ നിന്നുള്ള ശക്തി എങ്ങനെ വളരുന്നു ഞാൻ ഈ പോയിന്റ് ചാർജ് എടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോൾ നോക്കാം ഒപ്പം q അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ തുടങ്ങുക അത് ഒരു ഓസിലേറ്റിംഗ് മോഷൻ ഹാർമോണിക് ഓസിലേറ്റിംഗ് മോഷൻ ഉണ്ടാക്കുന്നു അതിനാൽ s ഇതിനകം q സ്ക്വയർ a സ്ക്വയർ 16 പൈ എപ്സിലോൺ 0 സി ക്യൂബ്ഡ് സൈൻ സ്ക്വയേർഡ് തീറ്റ ഓവർ r സ്ക്വയർ തുല്യമാണെന്ന് ഞങ്ങൾ കണ്ടു ഈ സാഹചര്യത്തിൽ a എന്നത് x ഡബിൾ ഡോട്ടിന് തുല്യമാണ് ഇവിടെ x ഒന്നുമല്ല എന്നാൽ ചില ആംപ്ലിറ്റ്യൂഡ് സൈൻ ഒമേഗ t ഡബിൾ ഡോട്ട് അതിനാൽ ഇത് മൈനസ് ഒമേഗ സ്ക്വയർ a സൈൻ ഒമേഗ t ആയിരിക്കും Sq2a21620c3sin2r2 ad2xdt2 2Asinωt അതിനാൽ ഓസിലേറ്റിംഗ് ചാർജ് വഴി വികിരണം ചെയ്യുന്ന പവർ q സ്ക്വയർ ഒമേഗ റൈസ് ടു 4 a സ്ക്വയർ തുല്യമായിരിക്കും ഇത് സൈൻ ഒമേഗ t സൈൻ സ്ക്വയർ അല്ല ഓവർ 16 പൈ എപ്സിലോൺ 0 c ക്യൂബ് സൈൻ സ്ക്വയർ ഒമേഗ ടി സൈൻ സ്ക്വയേർഡ് തീറ്റ ഓവർ r സ്ക്വയർ ശരാശരി പവർ ശരാശരി പവർ അർത്ഥമാക്കുന്നത് ഞങ്ങൾ അതിനെ ഒരു സൈക്കിളിൽ ശരാശരി കണക്കാക്കുന്നു അതിനാൽ ആവൃത്തി വളരെ വലുതാണെന്ന് മാത്രം ഞങ്ങൾ നിരീക്ഷിക്കുന്നു പകുതി കാരണം എനിക്ക് നൽകൂ ഇത് കാരണം പകുതിയുടെ ഘടകം ഞാൻ എഴുതിയപ്പോൾ ഇത് നേരത്തെ ചെയ്ത ഒരു തെറ്റായിരുന്നു അതിനാൽ ഇത് എനിക്ക് q സ്ക്വയർ ഒമേഗ റൈസ് ടു 4 a സ്ക്വയർ 32 pi എപ്സിലോൺ 0 c ക്യൂബ്ഡ് സൈൻ സ്ക്വയർ തീറ്റ ഓവർ r സ്ക്വയർ തരുന്നു ഓസിലേറ്റിംഗ് ചാർജ് നൽകുന്ന ശരാശരി പവർ ഇതാണ് ഓസിലേറ്റിംഗ് ചാർജ് ഇത് കേന്ദ്രത്തിൽ നിന്ന് അകന്നുപോകുന്നതിനാൽ q x ന് തുല്യമായ ഒരു ദ്വിധ്രുവവും ഉണ്ടാക്കുന്നു അതിനാൽ എനിക്ക് ഇത് വികിരണം നൽകുന്ന ഒരു ഓസിലേറ്റിംഗ് ദ്വിധ്രുവമായി ചിന്തിക്കാൻ കഴിയും ദ്വിധ്രുവത്തിന് ലംബമായി ദിശയിൽ വികിരണം പരമാവധി ആണ് ഇത് ദ്വിധ്രുവത്തിന്റെ ദിശയിൽ പൂജ്യമാണ് മൊത്തം വൈദ്യുതി വികിരണം എങ്ങനെ Sq24A21620c3ωt r2 Average power1T0TSdtq24A23220c3 r2 മൊത്തം വൈദ്യുതി വികിരണം അതിനാൽ ഇത് s q സ്ക്വയർ ഒമേഗ റൈസ് ടു 4 a സ്ക്വയർ 32 pi എപ്സിലോൺ 0 c ക്യൂബ് സൈൻ സ്ക്വയർ തീറ്റ ഓവർ r സ്ക്വയർ ഇത് യൂണിറ്റ് ഏരിയയ്ക്ക് പവർ മാത്രമാണ് അതിനാൽ മൊത്തം വൈദ്യുതി q സ്ക്വയർ ഒമേഗ റൈസ് ടു 4 a സ്ക്വയർ 32 pi എപ്സിലോൺ 0 c ക്യൂബ് സൈൻ സ്ക്വയർ തീറ്റ ഓവർ r സ്ക്വയർ തവണ കോസൈൻ തീറ്റ d phi r സ്ക്വയർ ഓർമ്മിക്കുക ഇത് ഏരിയ r ദിശയിൽ ഇപ്പോൾ r സ്ക്വയർ റദ്ദാക്കുന്നു ഒരു phi ആശ്രയത്വമില്ല അതിനാൽ 2 pi പുറത്തുവരും അതിനാൽ ഇത് സംയോജിപ്പിച്ചിരിക്കുന്നു ഇത് q സ്ക്വയർ ഒമേഗ 32 റൈസ് ടു 4 a സ്ക്വയർ ഓവർ 32 pi എപ്സിലോൺ 0 സി ക്യൂബ് തവണ 2 pi സംയോജനം സിൻ സ്ക്വയർ തീറ്റ എനിക്ക് 1 മൈനസ് കോസൈൻ സ്ക്വയർ തീറ്റ b കോസൈൻ തീറ്റ മൈനസ് 1 മുതൽ 1 വരെ പോകുന്നു 2 pi 32 pi എനിക്ക് തരുന്നു 16 Sq24A23220c3 r2Powerarea Total power q24A23220c3 r2dcosθdϕr2q24A23220c3×2π 111 cos2dcosθ അതിനാൽ ഇത് q സ്ക്വയർ ഒമേഗ റൈസ് ടു 4 a സ്ക്വയർ ഓവർ 16 എപ്സിലോൺ 0 c ക്യൂബ് തവണ 1 മൈനസ് കോസൈൻ സ്ക്വയർ d തീറ്റ കോസൈൻ തീറ്റ എനിക്ക് നാലിൽ മൂന്ന് ഭാഗം നൽകുന്നു അതിനാൽ ഇത് q സ്ക്വയർ ഒമേഗ റൈസ് ടു 4 a സ്ക്വയർ ഓവർ 12 എപ്സിലോൺ 0 c ക്യൂബ് തുല്യമാണ് അതെ എനിക്ക് pi യുടെ ഒരു ഘടകം കാണുന്നില്ല നിങ്ങൾ ഫോർമുലയിലേക്ക് മടങ്ങുകയാണെങ്കിൽ ഇത് ഇവിടെ pi സ്ക്വയറായിരുന്നു അതിനാൽ എനിക്ക് ഇവിടെ pi സ്ക്വയറും ഇവിടെ pi സ്ക്വയറും pi സ്ക്വയറും ഉണ്ട് അതിനാൽ ഒടുവിൽ pi ഇവിടെ വർഗ്ഗീകരിച്ചു അതിനാൽ ഒടുവിൽ എനിക്ക് 12 പൈ ഉണ്ട് മുന്നോട്ടും പിന്നോട്ടും ഓസിലേറ്റിംഗ് ചാർജ് അല്ലെങ്കിൽ ദ്വിധ്രുവത്തിന്റെ ദ്വിധ്രുവ മൊമെന്റ് p q a ന് തുല്യമാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയ ആശ്രിത സൈൻ ഒമേഗ ടി ഉണ്ട് ഇതിനെ വികിരണത്തിനുള്ള ലാംഡ ഫോർമുല എന്ന് വിളിക്കുന്നു അതിനാൽ ഈ പ്രഭാഷണത്തിൽ ഞാൻ കാണിച്ചത് വളരെ ഗുണപരമാണ് ഫീൽഡ് ലൈനുകൾ വരയ്ക്കുന്നു അതുപോലുള്ള കാര്യങ്ങൾ ത്വരിതപ്പെടുത്തുന്ന ചാർജ് ഒരു ഫീൽഡ് വികസിപ്പിക്കുന്നു അത് പ്രചാരണ ദിശയ്ക്ക് ലംബമാണ് ഇത് 1 ഓവർ r ആയി പോകുന്നു അതിനാൽ വികിരണ മണ്ഡലം Total power q24A212π0c3 ഇപ്പോൾ ഈ ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് സങ്കൽപ്പിക്കുക അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുവെങ്കിൽ ചിലപ്പോൾ ഫീൽഡ് ഒരു ദിശയിലായിരിക്കും ചിലപ്പോൾ മറ്റൊരു ദിശയിലായിരിക്കും കാരണം ഫീൽഡ് പ്രചരിപ്പിക്കുന്ന രീതി ഇതുപോലെ മുകളിലേക്കും താഴേക്കും പോകുന്നു ഇതാണ് പുറത്തേക്ക് പോകുന്ന ഹാർമോണിക് തരംഗം